സൂചക പദങ്ങൾ പ്രഷർ ഫ്ളൂയിഡ് ഫ്ളോ റേറ്റ് റിട്ടേൺ ലൈൻ കൺട്രോൾ സിസ്റ്റം ഇൻകംപ്രെസ്സിബിൽ എയർ ബബ്ബിൾ സീൽ മോട്ടോർ ഫോഴ്സ് ഇന്നത്തെ ലെക്ച്ചറിലേക്കു സ്വാഗതം ഇത് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ എന്ന കോഴ്സിലെ പാഠഭാഗം 26 ആണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഹൈഡ്രോളിക് നിയന്ത്രണ സിസ്റ്റം ആണ് ഒപ്പം നമ്മൾ അതിൻറെ അടിസ്ഥാനപരമായ ആശയങ്ങൾ വിലയിരുത്തും ഒപ്പം ഹൈഡ്രോളിക് നിയന്ത്രണ സിസ്റ്റം ഘടകങ്ങൾ കാണും ഇനി വരുന്ന ലെക്ച്ചറുകളിൽ നമ്മൾ ചില പ്രത്യേകതരം ഘടകങ്ങൾ കാണും ഒപ്പം അത് ഉപയോഗിച്ച് എങ്ങനെ ഹൈഡ്രോളിക് നിയന്ത്രണ സിസ്റ്റം ഉണ്ടാക്കാമെന്നും നോക്കും അതിനാൽ നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു തുടങ്ങുന്നതിനുമുമ്പ് നമ്മൾക്ക് പഠന ഉദ്ദേശങ്ങൾ നോക്കാം അതിനാൽ പഠന ഉദ്ദേശങ്ങൾ അടിസ്ഥാനപരമായി ഇതൊക്കെയാണ് ഹൈഡ്രോളിക് നിയന്ത്രണ സിസ്റ്റം പ്രവർത്തനതത്ത്വം വിശദീകരിക്കുക ഒപ്പം അതിൻറെ ഗുണങ്ങൾ മനസ്സിലാക്കുക അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഒപ്പം എന്തു കൊണ്ടാണ് ചില പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഇവയെ മാറ്റിവയ്ക്കാൻ പറ്റാത്തത് അവിടെ ചില ഗുണങ്ങളുണ്ട് പിന്നെ തീർച്ചയായും ഈ പാഠഭാഗത്തിലെ പ്രധാന ഉദ്ദേശം അടിസ്ഥാന ഹൈഡ്രോളിക് നിയന്ത്രണ സിസ്റ്റം ഘടകങ്ങളെ ഒപ്പം സിസ്റ്റത്തിൽ അതിനുള്ള കർത്തവ്യങ്ങളും പരിചയപ്പെടുക എന്നതാണ് അവ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒപ്പം അവയുടെ ഘടന വിവരിക്കണം ഒപ്പം പമ്പ് ഒപ്പം മോട്ടോർ എന്നിവയുടെ പ്രവർത്തന സ്വഭാവങ്ങളും വിവരിക്കണം എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് ഡയറെക്ഷണൽ വാൽവ് ഒപ്പം നിയന്ത്രണ വാൽവ് എന്നിവയെ പരിചയപ്പെടുക അതിനാൽ ഇതൊക്കെ ആയിരിക്കും നമ്മൾ വിശദീകരിക്കുന്നത് അതിനാൽ നമ്മൾക്ക് ഹൈഡ്രോളിക് അടിസ്ഥാന തത്ത്വം ആദ്യം നോക്കാം അത് പ്രധാനമായും പാസ്കൽ നിയമമാണ് അത് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ദ്രാവകത്തിൽ കൊടുക്കുന്ന മർദ്ദം തുല്യമായി എല്ലാ ദിശയിലേക്കും അയച്ചുകൊടുക്കും അതിനാൽ ദ്രാവകത്തിൽ ഒരു സ്ഥലത്ത് മർദ്ദം കൊടുത്താൽ അത് ദ്രാവകത്തിലൂടെ പടർന്നു അത് ഇൻകംപ്രെസ്സിബിൽ ആണ് എന്നിട്ട് അത് എല്ലായിടത്തും അയച്ചുകൊടുക്കും അതിനാൽ ഇൻകംപ്രെസ്സിബിൽ ദ്രാവക ത്തിൻറെ ഈ സ്വഭാവം ഉപയോഗിച്ച് ഫോഴ്സ് അയച്ചുകൊടുക്കും അതിനാൽ നമ്മൾ നടപ്പിലാക്കും അടിസ്ഥാനപരമായി ഹൈഡ്രോളിക് നിയന്ത്രണ സിസ്റ്റം ഉപയോഗിക്കുന്നത് വിവിധ സാഹചര്യങ്ങളിൽ ചലനമുണ്ടാക്കാൻ ആണ് അതായത് ഭാരമുള്ള ലോഡിന് എതിരെ കൃത്യമായ ചലനങ്ങൾ ഉണ്ടാക്കാനാണ് അതിനാൽ വലിയ ഫോഴ്സ് അയച്ചുകൊടുത്തു കൃത്യമായ ചലനങ്ങൾ ഒപ്പം വെലോസിറ്റി ഉണ്ടാക്കണം ഇവിടെയാണ് ഭൂരിപക്ഷം ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിക്കപ്പെടുന്ന പ്രവർത്തനതലം അതിനാൽ പ്രധാനമായും നമ്മൾ ചെയ്യാൻ പോകുന്നത് മർദ്ദം ദ്രാവകത്തിൽ ഒരറ്റത്ത് കൊടുക്കുക എന്നതാണ് എന്നിട്ട് അതേ മർദ്ദം വേറെ ഏതെങ്കിലും ഒരു വസ്തുവിൽ അയച്ചുകൊടുക്കും അതിനാൽ മർദ്ദം ഒരു വസ്തുവിൽ കൊടുക്കുമ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ടാകുന്നു അതിനാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഫോഴ്സ് ഒരു ചലനം ഉണ്ടാകും ഞാൻ പറഞ്ഞതുപോലെ മർദ്ദമാണ് ഫോഴ്സ് നിർണയിക്കുന്നത് ഒപ്പം അത് എങ്ങനെയാണ് ഫോഴ്സ് നിർണയിക്കുന്നത് മർദ്ദം എന്നാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അതിനാൽ നമ്മൾ ഇത് നോക്കേണ്ടതുണ്ട് ഇത് നമ്മൾ വിദ്യാലയത്തിൽ പഠിച്ചതാണ് നിങ്ങൾക്ക് കാണാം നമ്മൾ ഇത് നടപ്പിലാക്കിയാൽ അടിസ്ഥാനപരമായ ഒരു ഉദാഹരണമെടുക്കാം അത് ഹൈഡ്രോളിക് പ്രസ് അടിസ്ഥാന തത്വം ആണ് ഇത് ഒരു ആദ്യകാല ഹൈഡ്രോളിക് യന്ത്രമാണ് ഇവിടെ നമ്മൾക്ക് ചെറിയ ഒരു പിസ്റ്റൺ ഉണ്ട് ഇവിടെ ഒരു വലിയ പിസ്റ്റൺ ഉണ്ട് വലുത് എന്ന് പറഞ്ഞാൽ വ്യാപ്തി വലുതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഇവിടെ ഒരു ലോഡ് കൊണ്ടുവന്നാൽ ഉദാഹരണത്തിന് 1 kg അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ മർദ്ദം 1 kg ഫോഴ്സ് ബൈ A1 ആണ് ഇനി ഇതു തന്നെ ഇത് A1 ആണ് ഒപ്പം ഇത് A2 ആണ് അതിനാൽ പാസ്കൽ നിയമം അനുസരിച്ച് അതേ മർദ്ദം തന്നെ ഇവിടെ പ്രകടമാവും അതിനാൽ ഇവിടത്തെ മർദ്ദം 1kg FA1 ആണ് ഒപ്പം ഇവിടത്തെ ഫോഴ്സ് 1 kg F x A2 A1 കാരണം ഇതാണ് മർദ്ദം അതിനാൽ A2 ഇൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്തായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ 1 kg ഫോഴ്സ് ഇവിടെ കൊടുക്കുമ്പോൾ ഒപ്പം ഇവിടെ ഗുണനം ചെയ്ത ഫോഴ്സ് നമ്മൾ ഉണ്ടാക്കി അതിനാൽ നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാക്കി ഇനി A2 A1 അനുപാതം 100 ആണെങ്കിൽ 1 kg ഫോഴ്സ് ഒരറ്റത്ത് കൊടുത്താൽ നമ്മൾക്ക് 100 kg ഫോഴ്സ് മറ്റേ അറ്റത്ത് ഉണ്ടാക്കാൻ കഴിയും അതിനാൽ ഈ തത്വം ഉപയോഗിച്ച് ഇത് ഏതാണ്ട് ഫ്ലൂയിഡിക് ലിവർ പോലെയാണ് ഓർക്കുക ലിവർ എന്ന് പറയാൻ കാരണം ഫൽക്റം ഉണ്ട് ഫോഴ്സ് ഒരറ്റത്ത് കൊടുത്താൽ ഒരു വലിയ ലോഡ് മറ്റേയറ്റത്ത് എടുക്കാൻ സാധിക്കും മോമെന്റ്റ് ബാലൻസ് കാരണം ഇവിടെയും മർദ്ദ സമതുലിതാവസ്ഥ കാരണം ഇതേ പോലെ തന്നെ നടക്കും അതിനാൽ നമ്മൾക്ക് ഗുണം ചെയ്തു വലിയ ഫോഴ്സ് ഉണ്ടാക്കാൻ കഴിയും ചിലപ്പോൾ ഒരാളുടെ മനസ്സിൽ അത് ഒരു മിഥ്യാബോധം ഉണ്ടാക്കിയേക്കാം പെട്ടെന്ന് എങ്ങനെ ഞാൻ അർത്ഥമാക്കുന്നത് ഭൌതിക ശാസ്ത്ര നിയമങ്ങൾ അതായത് ഊർജപരിപാലന നിയമങ്ങൾ പ്രാബല്യം അല്ലാതെ ആകുമോ എന്നാണ് ഊർജ്ജം എന്തായാലും പരിപാലിക്കുന്നുണ്ട് കാരണം ഊർജ്ജം അല്ലെങ്കിൽ പവർ എന്നാൽ ഫോഴ്സ് ഗുണം വെലോസിറ്റി ആണ് അതിനാൽ നമ്മൾക്ക് ഇതൊന്നു നോക്കാം വെലോസിറ്റി വരുന്നത് ഫ്ളോ നിന്നാണ് അതിനാൽ എന്താണ് ഫ്ളോ എന്താണ് ഫ്ളോ നിരക്ക് അടുത്ത ചിത്രം നോക്കാം അതിൽനിന്നും വ്യക്തമാകും നമ്മൾക്ക് ഒരു ലളിതമായ ഹൈഡ്രോളിക് ആക്ചുവേറ്റർ നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഒരു മർദ്ദം ഉണ്ടാക്കുന്നു അത് വ്യാപ്തി ഒപ്പം മർദ്ദം ആശ്രയിച്ച് ഒരു ഫോഴ്സ് F ഉണ്ടാക്കും അതിനാൽ F P x A ഇനി നമ്മൾക്ക് വെലോസിറ്റി നോക്കാം എന്താണ് വോള്യുമെട്രിക് ഫ്ളോ നിരക്ക് Q അത് വ്യാപ്തി ഗുണനം L ആണ് L എന്നാൽ ട്രാവൽ പെർ യൂണിറ്റ് ടൈം ആണ് വേറെ വാക്കുകളിൽ പറഞ്ഞാൽ L വെലോസിറ്റി ആണ് അതിനാൽ F P x A Q L x A അല്ലെങ്കിൽ നമ്മൾക്ക് എഴുതാം V Q A അതിനാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്താണ് ഉണ്ടാകുന്ന മെക്കാനിക്കൽ പവർ അത് ഫോഴ്സ് ഗുണം വെലോസിറ്റി ആയിരിക്കും അതിനാൽ F x V P x Q അതിനാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യാപ്തി ചിത്രത്തിൽ വരില്ല അതിനാൽ പവർ പവർ സമവാക്യത്തിൽ വ്യാപ്തി ചിത്രത്തിൽ വരില്ല ഫോഴ്സ് ഗുണനം ചെയ്താലും ഊർജ്ജം ഗുണനം ആവില്ല ഊർജ്ജം അതേപോലെ തന്നെ ഇരിക്കും ഒരു പമ്പ് ദ്രാവകം കൊടുക്കുന്നത് ഒരു പ്രത്യേക നിരക്കിലാണ് വോള്യുമെട്രിക് ഫ്ളോ നിരക്ക് ഒപ്പം ഒരു പ്രത്യേക മർദ്ദത്തിൽ അപ്പോൾ പമ്പ് ഔട്ട്പുട്ട് പവർ എന്നാൽ P x Q ആണ് അതിനാൽ വ്യാപ്തി എന്തുതന്നെയായാലും മെക്കാനിക്കൽ പവർ P x Q ആണ് F x V P x Q അതുകൊണ്ട് ഊർജം പരിപാലിക്കും ഒപ്പം അവിടെ വൈരുദ്ധ്യം ഒന്നുമില്ല പക്ഷേ എന്തുതന്നെയായാലും എന്തായിരിക്കും ശരിക്കും സംഭവിക്കുന്നത് ലോഡിൽ കൊടുക്കാവുന്ന ഫ്ളോ നിരക്കിനെ ആശ്രയിച്ച് ചിലപ്പോൾ ഒരു വലിയ ഫോഴ്സ് ഒരു വലിയ ഫോഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ അതേ സമയം വലിയ ഫോഴ്സ് ചലനമുണ്ടാക്കാൻ വേണ്ട ലോഡിൻറെ നിരക്ക് കുറവായിരിക്കും അതിനാൽ ഊർജ്ജം പരിപാലിക്കും ഇത് ഒരു അടിസ്ഥാന വസ്തുത ആണ് അതിനാൽ ഇത് മനസ്സിലാക്കിയതിനു ശേഷം ഇനിയുള്ള പഠന ഭാഗങ്ങളിൽ നമ്മൾ എപ്പോഴും കാണാൻ പോകുന്ന ഒരു ഘടകം ഇതാണ് അതിനാൽ ഈ ഘടകം നോക്കാം അതിനാൽ ആദ്യത്തെ ഘടകം ദ്രാവകമാണ് ദ്രാവകമാണ് മർദ്ദം അല്ലെങ്കിൽ പവർ അയച്ചു കൊടുക്കുന്നത് അതിനാൽ നിങ്ങൾ ഒരു പവർ ഇൻപുട്ട് ആയി കൊടുക്കുന്നു ഇൻകംപ്രെസ്സിബിൽ ആയ ആ പവർ ദ്രാവകത്തിലൂടെ മുന്നോട്ടുപോകുന്നു എന്നിട്ട് വേറൊരു രീതിയിൽ പവർ അയച്ചു കൊടുക്കുന്നു അതിനാൽ മർദ്ദം ഒപ്പം ഫ്ളോ അടിസ്ഥാനമാക്കിയ പവർ മെക്കാനിക്കൽ പവർലേക്ക് പരിവർത്തനം ആകുന്നു ഇവിടെ കുറച്ച് ഓർക്കേണ്ട കാര്യങ്ങൾ ഇതാണ് സിസ്റ്റം വളരെ കൃത്യമാണ് വളരെ കൃത്യമായ ചലനങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഭാഗങ്ങളുടെ ആകാരം കൃത്യം ആകണം അവ ഉള്ളിൽ അനങ്ങുന്നുണ്ട് അതിനാൽ ഉള്ളിൽ ഫ്രിക്ഷൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ദ്രാവകം ചോർന്നു പോകും ഭാഗങ്ങൾ മുറുകെ ആയിരിക്കണം ഉറപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദ്രാവകം ചോർന്നു പോകും ഉള്ളിൽ ഫ്രിക്ഷൻ വരുന്നുണ്ട് അത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകാരണം ഉള്ളിൽ ചൂട് വരും അത് കുറേ ഊർജ്ജം പാഴാകും എന്നിട്ട് ഭാഗങ്ങളിൽ തകരാറുണ്ടാക്കും അതിനാൽ ഭാഗങ്ങൾ വഴുവഴുപ്പുള്ളതാക്കുക ഇതിന് ആയിരിക്കണം പ്രഥമ പരിഗണന നൽകേണ്ടത് അതിനാൽ ഫ്രിക്ഷൻ ഇല്ലാത്ത ചലനം ഉണ്ടാകും ഒപ്പം ദ്രാവകം ആയത് കൊണ്ട് ഹൈഡ്രോളിക് പ്രധാനഗുണം നമ്മൾക്ക് ഇതിനെ വീണ്ടും വഴുവഴുപ്പുള്ളതാക്കുക വേണ്ട കാരണം അവ വഴുവഴുപ്പുള്ളതാണ് അവയാണ് പവർ അയച്ചുകൊടുക്കാൻ ഉപയോഗിക്കുന്നത് എന്നാലും ഫ്രിക്ഷൻ കാരണം കുറച്ചു ചൂട് ഉണ്ടാകും അതിനാൽ ഘടകങ്ങളെ തണുപ്പിക്കണം കാരണം വലിയ ഒരു മർദ്ദം അവിടെ ഉണ്ടാകും പക്ഷേ ദ്രാവകം ഘടകങ്ങളെ തണുപ്പിക്കും രണ്ടാമത് അവ മാലിന്യങ്ങളെ ഒഴിവാക്കും സാധനങ്ങൾ ചലിക്കുമ്പോൾ ചില ചെറിയ അംശങ്ങൾ ഫ്രിക്ഷൻ കാരണമുണ്ടാകും സമാനമായി ദ്രാവകത്തിൽ വായു കേറും അതിനാൽ ഉള്ളിൽ പെട്ട വായു പൊടിപടലങ്ങൾ ഈ സാധനങ്ങൾ സിസ്റ്റത്തിൽ നിന്നും ഒഴിവാക്കണം ഒപ്പം ദ്രാവകം ഒഴുകുമ്പോൾ ഇതിനെയൊക്കെ വൃത്തിയാക്കും എന്നിട്ട് ഫിൽട്ടറിൽ കൊണ്ടുവരും അവിടെവച്ച് അതിനെ ശുദ്ധിയാകും ഒരു സാധാരണ ഹൈഡ്രോളിക് ദ്രാവകം ചിലസമയങ്ങളിൽ പെട്രോളിയം നിങ്ങൾക്കറിയാം വെള്ളത്തിൽ കുറച്ച് വസ്തുക്കൾ ചേർത്ത് അല്ലെങ്കിൽ ചില സമയം വെള്ളം എണ്ണ മിശ്രിതം പക്ഷേ ഏറ്റവും പ്രസിദ്ധമായ ഹൈഡ്രോളിക് ദ്രാവകം പെട്രോളിയം എണ്ണ ആണ് അത് വളരെ ഇൻകംപ്രെസ്സിബിൽ ആണ് സ്വയം വഴുവഴുപ്പുള്ളതാണ് അതിനുള്ള ഒരേയൊരു പ്രശ്നം തീപിടിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് അതാണ് ഇവയുടെ ന്യൂനത അതിനാൽ ഇത് ഇൻകംപ്രെസ്സിബിൽ ആണ് വഴുവഴുപ്പുള്ളതാണ് പക്ഷേ എളുപ്പം തീ പിടിക്കാവുന്നതാണ് ഇത് പരിഗണനക്ക് എടുക്കേണ്ടതാണ് ഇതാണ് ഈ ചിത്രം പറയുന്നത് ഹൈഡ്രോളിക് ദ്രാവകം എന്ത് ചെയ്യും നമ്മൾക്ക് കാണാൻ സാധിക്കും ഹൈഡ്രോളിക് ദ്രാവകം വഴുവഴുപ്പുള്ളതാക്കും അത് തണുപ്പിക്കും ഒപ്പം മാലിന്യങ്ങൾ ഒഴിവാക്കും അതേ പോലെ ഞാൻ പരാമർശിക്കാത്ത വേറൊരു കാര്യം കൂടിയുണ്ട് അത് സീൽ ചെയ്യും എണ്ണയുടെ വിസ്കോസിറ്റി കാരണം ഉദാഹരണത്തിന് ഇവിടെ ദ്രാവകം ഫലപ്രദമായി ലിക്വിഡ് ഫിലിം വെച്ച് സീൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനാൽ ലിക്വിഡ് ഫിലിം ഇവിടെ സീൽ ആയി ഉപയോഗിക്കാം അതിനാൽ ഇവിടെയും മർദ്ദത്തിന് ഒരു ഫലപ്രദമായ പ്രതിബന്ധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കാരണം മർദ്ദം ചോർന്നു പോയാൽ മർദ്ദനത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പോൾ അത് നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ ഇത് സീൽ ചെയ്യണം ചില സമയങ്ങളിൽ ലിക്വിഡ് ഫിലിം സീൽ ഉണ്ടാക്കും അല്ലാത്ത സ്ഥലങ്ങളിൽ വേറെ സീൽ കൂട്ടിച്ചേർക്കണം ഇതാണ് ലിക്വിഡ് ചെയ്യുന്ന വേറൊരു കാര്യം ഇനി എങ്ങനെയാണ് ദ്രാവകം ഒഴുകുന്നത് ദ്രാവകം പൈപ്പിൽ കൂടെയാണ് ഒഴുകുന്നത് നിങ്ങൾക്കറിയാം ഹൈഡ്രോളിക് സിസ്റ്റം ഒരു ന്യൂനത ഇതിൽ പൈപ്പ് വേണം എന്നതാണ് ദ്രാവകം ആയതുകൊണ്ട് പമ്പിൽ നിന്ന് ലോഡിലേക്ക് ഒഴുകാൻ പൈപ്പ് വേണം എന്നിട്ട് റിട്ടേൺ ലൈൻ വേണം അതിനാൽ കുറച്ച് ചിലവ് ഒപ്പം പരിപാലനം കൂട്ടിച്ചേർക്കപെടും ഉദാഹരണത്തിന് ന്യൂമാറ്റിക് സിസ്റ്റം ആയി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല റിട്ടേൺ ലൈൻ അവിടെ ആവശ്യമില്ല കാരണം പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു അത് അന്തരീക്ഷവായു ആയി മാറും അത് വെറുതെ അന്തരീക്ഷത്തിൽ വിട്ടാൽ മതിയാകും അതുകൊണ്ട് റിട്ടേൺ ലൈൻ ചിലവ് ഉണ്ടാകില്ല പക്ഷേ ഹൈഡ്രോളിക് കാര്യത്തിൽ ഇതല്ല അവിടെ നിങ്ങൾക്ക് റിട്ടേൺ ലൈൻ വേണം അതിനാൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വിവിധതരം ലൈൻ ഉണ്ട് ഉദാഹരണത്തിന് ഇത് പമ്പ് ആണെന്ന് കരുതുക ഇത് മോട്ടർ ആണെന്ന് കരുതുക പമ്പ് ഒരു മർദ്ദം ഉണ്ടാക്കി മോട്ടറിൽ ചലനം ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ലൈൻ ഉണ്ട് അതിനെ ഇവിടെ ഫാം ലൈൻ ആയാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ കൂടെ ദ്രാവകം ഒഴുകും ഒപ്പം പവർ അയച്ചുകൊടുക്കും ഇതിനെ പ്രവർത്തന ലൈൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് നിങ്ങൾക്ക് മർദ്ദം കൂട്ടി ചേർക്കേണ്ടത് ആയി വരും അത് നിയന്ത്രണത്തിന് വേണ്ടിയാണ് പവർ അയച്ചുകൊടുക്കാൻ അല്ല ദിശ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ചിലസമയങ്ങളിൽ മർദ്ദം ഉപേക്ഷിക്കേണ്ടിവരും അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ മർദ്ദം ഉണ്ടാക്കേണ്ടിവരും അതിനാൽ ചിലസമയങ്ങളിൽ പ്രത്യേക ലൈൻ ഉപയോഗിക്കേണ്ടിവരും ഒപ്പം ഈ ലൈൻ ആണ് പൈലറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത് ഈ ചിത്രത്തിൽ പൈലറ്റ് ലൈൻ ഉൽഭവിക്കുന്നത് പ്രവർത്തന ലൈനിൽ നിന്നാണ് എല്ലാ സമയങ്ങളിലും ഇങ്ങനെ ആകണമെന്നില്ല ഒപ്പം പൈലറ്റ് ലൈൻ കാണിച്ചിരിക്കുന്നത് നീളം കൂടിയ ഡാഷ് ഉപയോഗിച്ചാണ് സമാനമായി കുറച്ച് ട്രയിൻ ലൈൻ ഉണ്ട് കാരണം കുറച്ച് ദ്രാവകം എന്തായാലും ചോർന്നു പോകും അതിനാൽ അത് ശേഖരിക്കണം അതിനാൽ ഇവിടെ നിന്ന് അത് തുളുമ്പി പോകും പക്ഷേ നഷ്ടമാകില്ല അതിനാൽ ട്രയിൻ ലൈൻ കൂട്ടിച്ചേർക്കണം അതിനാൽ ട്രയിൻ ലൈൻ ഉണ്ട് അത് കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ നീളംകുറഞ്ഞ ഡാഷ് വച്ചാണ് അതിനാൽ സാധാരണ മൂന്നുതരം ലൈൻ ആണ് ഉള്ളത് അതിൽ കൂടെയാണ് ദ്രാവകം ഒഴുകുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം ഇനി വേണ്ടത് സീൽ ഒപ്പം ഫിറ്റിങ് ആണ് ചില സമയങ്ങളിൽ സീൽ ലിക്വിഡ് ഫിലിം നൽകുന്ന സ്വാഭാവികമായ സീൽ ആണ് പക്ഷേ ചില സമയങ്ങളിൽ വേറെ വേണം ഫിറ്റിങ് എന്നാൽ നിങ്ങൾക്കു പൈപ്പ് ഉണ്ട് നിങ്ങളുടെ വീടുകളിൽ ശുചിമുറിയിൽ നിങ്ങൾ കണ്ടു കാണും ദ്രാവകം ഒഴുകുമ്പോൾ നിങ്ങൾക്ക് വിവിധതരം ഫിറ്റിങ് ആവശ്യമായിവരും വിവിധതരം ജോയിൻറ്റ് ആവശ്യമായിവരും പൈപ്പ് വേണം അത് ഫാം പൈപ്പ് ആകാം ചില സമയങ്ങളിൽ അത് ലോഹം ആകാം നിങ്ങൾക്ക് അറിയാം ഉറപ്പിച്ച പൈപ്പ് ചില സമയങ്ങളിൽ നമ്മൾക്ക് പോളിമർ പൈപ്പ് ഉണ്ടാവും അതിനാൽ നമ്മൾക്ക് വളയുന്ന ട്യൂബ് ഉണ്ടാക്കാം ചില സമയങ്ങളിൽ ഹോസ് ഉണ്ടാവും അത് മെറ്റൽ റീഇൻഫോഴ്സ്ഡ് പോളിമർ പൈപ്പ് ആണ് അതിനാൽ വിവിധതരം പൈപ്പ് ഉപയോഗിക്കാം അതിൻറെ കൂടെ വിവിധതരം ഫിറ്റിങ് ഒപ്പം സീൽ ഉപയോഗിക്കണം അതിൽ കൂടുതൽ ആഴത്തിൽ നമ്മൾ പോകുന്നില്ല ഏതുതരം റിങ്ങ് ആണെന്ന് വെറുതെ കാണിക്കുന്നു ഉദാഹരണത്തിന് ഇത് ഒരു O റിങ്ങ് ആണ് ഇത് വളരെ പൊതുവായ സീൽ ആണ് നിങ്ങൾക്കു കാണാം ഇതേപോലെ നീങ്ങുമ്പോൾ മർദ്ദത്തിന് എതിരെ ചലിക്കുമ്പോൾ ഇവിടെ സീൽ ഉണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും എന്നാൽ സീൽ മർദ്ദം അനുഭവിക്കപെടും എന്നിട്ട് ഇവിടെ വന്ന് ഉറപ്പിക്കും അല്ലേ അപ്പോൾ ഇത് ശരിക്കും അമർത്തുമ്പോൾ ഇത് ഇവിടെ വന്നു ഉറപ്പിക്കും അതായത് ഫലപ്രദമായി സീൽ ചെയ്യും ഈ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നും അതിനാൽ ഇതാണ് റിങ്ങ് ഇതാണ് റബ്ബർ ട്യൂബ് ഇതിൽ മർദ്ദം അനുഭവപ്പെടും ഇത് വന്നിട്ട് സ്വയം സീൽ ആകും സമ്മർദ്ദം വരുമ്പോൾ സീൽ ആകും ഇതേപോലെ വിവിധതരം സീൽ ഉപയോഗിക്കാം ഇത് വളരെ പ്രധാനമാണ് ഇത് നമ്മൾ കൂടുതൽ നോക്കില്ല പക്ഷേ ഇത് ശരിയാകാതെ ഹൈഡ്രോളിക് സിസ്റ്റം പ്രവർത്തിക്കാൻ പോകുന്നില്ല ഒപ്പം പരിപാലനത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനാൽ പരിപാലനം ചെയ്യപ്പെടുക എന്ന കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രധാനമാണ് പിന്നെ ആവശ്യമായുള്ളത് റിസർവോയർ ആണ് എണ്ണ തുടർച്ചയായി ചുറ്റി തിരിയുകയാണ് അതിനാൽ ഇത് ആരംഭിക്കുന്നത് റിസർവോയറിൽ നിന്നാണ് പമ്പ് എണ്ണ വലിച്ചെടുക്കും എന്നിട്ട് ഒരു പ്രത്യേക മർദ്ദത്തിൽ അതിനെ കൊടുത്തയക്കും എന്നിട്ട് അത് സിസ്റ്റത്തിൽ കൂടെ ഒഴുകും എന്നിട്ട് തിരിച്ചു വരും അല്ലേ പക്ഷേ റിസർവോയർ ദ്രാവകം സംഭരിക്കുന്നത് കൂടാതെ അത് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യും അത് ദ്രാവകം പിടിച്ചുനിർത്തും അത് കൂടാതെ വേറെ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഉദാഹരണത്തിന് അത് റിസർവോയർ ചൂട് പാഴാക്കി കളയും അങ്ങനെ ദ്രാവകം തണുപ്പിക്കും ഒപ്പം അകത്തുകയറിയ വായുവിന് പുറത്തു കളയും അതിനാൽ പൈപ്പ് ലൈൻ അടുത്ത് ആയി ബന്ധിപ്പിച്ച ഫിൽറ്ററിൽ മാലിന്യങ്ങൾ ഭാഗികമായി എടുത്തു കളയും പൊതുവായി റിട്ടേൺ ലൈൻ അടുത്തായി അപ്പോൾ അത് ദ്രാവകത്തിലെ ചെറിയ അംശങ്ങൾ കളയും റിസർവോയറിൽ അകത്ത് കേറിയ വായുവിൽ എയർ ബബിൾ ഒഴിവാക്കും ഒപ്പം അകത്തു കയറിയ എയർ ബബിൾ ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം ദ്രാവകത്തിൽ എയർ ബബിൾ ഉണ്ടെങ്കിൽ ദ്രാവകം ഇൻകംപ്രെസ്സിബിൽ ആകില്ല കാരണം ദ്രാവകത്തിൽ സമ്മർദ്ദം കൊടുത്താൽ എയർ ബബിൾ സങ്കോചിപ്പിക്കുകയും ഒപ്പം ദ്രാവകം സങ്കോചിപ്പിക്കുകയും ചെയ്യും സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ദ്രാവകത്തിലെ ബൾക് മോഡുലസ് വായു അകത്തു കയറിയാൽ വളരെയധികം കുറയും അതിനാൽ ഫലപ്രദമായി അയച്ചുകൊടുക്കാൻ ഇത് വളരെ പ്രധാനമാണ് ഒപ്പം പെട്ടെന്ന് പ്രതികരിക്കുന്ന അയച്ചു കൊടുക്കൽ ആവാൻ ദ്രാവകം ഇൻകംപ്രെസ്സിബിൽ ആകണം അതുകൊണ്ട് എയർ ബബിൾ ഒഴിവാക്കുന്നത് പ്രധാനമാണ് ഒപ്പം അത് ടാങ്കിൽ നിന്ന് ഒഴിവാക്കും നമ്മൾ ഹൈഡ്രോളിക് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊരു ചിഹ്നം ഉണ്ടാകും കാരണം ഇനി വരാൻ പോകുന്ന പാഠഭാഗങ്ങളിൽ നമ്മൾ ഹൈഡ്രോളിക് സർക്യൂട്ട് വരയ്ക്കും അതിനാൽ ഇതാണ് റിസർവോയർ ചിഹ്നം ഇതിൽ രണ്ട് ഫിൽറ്റർ ഉണ്ട് തിരിച്ചു വന്നാൽ റിസർവോയർ പ്രവർത്തനങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിനാൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നിന്ന് ബാഫിൽ ഉണ്ട് ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ ദ്രാവകത്തിൽ ഈ ഭാഗം ചെറിയ റെസിസ്റ്റൻസ് കാരണം നേരിട്ട് പമ്പ് വലിച്ചെടുക്കും അതുകൊണ്ട് ദ്രാവകം ഇപ്പോൾ വലിച്ചെടുക്കുക ഇല്ല ഒപ്പം അധികസമയം ദ്രാവകം ടാങ്കിൽ ഉണ്ടാകില്ല അതിനാൽ അത് കൂടുതൽ സമയം തണുപ്പിക്കാൻ ആവില്ല അതിൽനിന്ന് വായു ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ബാഫിൽ ഇവിടെയുള്ളത് അതിനാൽ ദ്രാവകം ഇവിടെ വന്നു ഇരിപ്പുറപ്പിക്കും ഒപ്പം നേരത്തെ വന്ന ദ്രാവകം പമ്പ് ഉള്ളിൽ കയറും അതിനാൽ ഇത് അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പമ്പ് എങ്ങനെയാണ് ഉള്ളത് എന്ന് കാണാം എങ്ങനെയാണ് റിസർവോയർപ്രവർത്തിക്കുന്നതെന്ന് കാണാം ഇനി നമ്മൾക്ക് പ്രധാന ഘടകങ്ങളിലേക്ക് വരാം ആദ്യത്തേത് പമ്പ് ആണ് പമ്പ് എന്നാൽ ഹൈഡ്രോളിക് ഊർജ്ജം ഉൽപാദിക്കുന്നത് അവിടെനിന്നാണ് എന്നിട്ട് അത് ദ്രാവകത്തിൽ കൊടുക്കും അപ്പോൾ അതിന് ഒരു പ്രത്യേക ഫ്ളോ നിരക്ക് ഉണ്ടാവും അത് തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക മർദ്ദത്തിൽ ഉള്ള ലോഡ് ആണ് പമ്പിനെ നയിക്കുന്നത് ആരാണ് അതിന് ഒറ്റയ്ക്ക് ഊർജം ഉൽപാദിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ വേറെ എന്തെങ്കിലും വഴിയിൽ ഊർജ്ജം ഉത്പാദിപ്പിക്കണം അതിനുവേണ്ടി ചിലപ്പോൾ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗപ്പെടുത്തും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഹൈഡ്രോളിക് വിമാന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്ക് എൻജിൻ ആയി ബന്ധിപ്പിച്ച് അതിൽ വാതകം ഉപയോഗിച്ച് ഏതെങ്കിലുമൊരു മോട്ടോർ പ്രവർത്തിപ്പിക്കാം അത് പമ്പിനെ നയിക്കും അപ്പോൾ പാമ്പിന് പ്രാഥമികമായി നീക്കാൻ ഏതെങ്കിലും ഒരു കാര്യം വേണം എന്നിട്ട് അതൊരു പ്രത്യേക മർദ്ദത്തിൽ ദ്രാവകത്തിന് കൊടുക്കും മോട്ടോർ പമ്പ് പ്രതിരൂപമാണ് മോട്ടോർ മർദ്ദത്തിൽ ഉള്ള ദ്രാവകം സ്വീകരിച്ച് ലോഡിന് എതിരെ ചലനം ഉണ്ടാകും അതിനാൽ സാധാരണയായി ഒപ്പം ഒരു ബാറ്ററി പോലെയാണ് പ്രവർത്തിക്കുന്നത് അതേസമയം ലോഡ് മോട്ടർ ആയിരിക്കും ഇങ്ങനെയാണ് ചിഹ്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പമ്പ് ചിഹ്നം ഇങ്ങനെയാണ് ഒപ്പം മോട്ടോർ ചിഹ്നം ഇങ്ങനെയാണ് അതേപോലെ കുറച്ച് റിവേഴ്സിബിൾ ഉണ്ട് അതായത് പമ്പ് ഒപ്പം മോട്ടർ റിവേഴ്സിബിൾ ആണെങ്കിൽ അത് രണ്ട് ദിശയിലേക്കും തിരിയാം അങ്ങനെയാണെങ്കിൽ ഇതാണ് ചിഹ്നം ക്ഷമിക്കണം നിരവധി തരത്തിലുള്ള പമ്പ് ഉണ്ട് നമ്മൾ മൂന്നുതരത്തിലുള്ള പമ്പ് നോക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ നോക്കുന്നത് പിസ്റ്റൺ പമ്പ് അല്ലെങ്കിൽ മോട്ടർ ആണ് രണ്ടിലും അതിൻറെ ഘടന സമാനമാണ് ഒരേയൊരു കാര്യം പമ്പിൽ ചലനമുണ്ടാക്കാൻ പ്രാഥമികമായ കാരണം കാണും ഒപ്പം ദ്രാവകം അയക്കും അതേസമയം മോട്ടറിൽ ദ്രാവകം വന്നു ഒപ്പം ചലനം ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് ഇതാണ് വ്യത്യാസം അതിനാലാണ് ഇവയെ ഒരേപോലെ കാണിക്കുന്നത് ആദ്യത്തെ ഭാഗം പിസ്റ്റൺ ആണ് ആക്സിയൽ പിസ്റ്റൺ പമ്പ് ഇങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾക്ക് ഇവിടെ വിചാരിക്കാം ഞാൻ മോട്ടർ ചുറ്റളവിൽ കൂടെ കാണിക്കാൻ ശ്രമിക്കാം ഇവിടെ കുറേ പിസ്റ്റൺ ഉണ്ട് അതിനാൽ ഒരു പരിച്ഛേദം എടുത്താൽ നിങ്ങൾക്ക് ഈ ചിത്രം കാണാം അല്ലേ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട് അതിനാൽ ചുറ്റളവിൽ നോക്കിയാൽ ഒരു പിസ്റ്റൺ ഉണ്ട് ഇവിടെ വേറൊരു പിസ്റ്റൺ ഉണ്ട് ഇവിടെ വേറൊരു പിസ്റ്റൺ ഉണ്ട് അപ്പോൾ ചുറ്റളവിൽ നോക്കിയാൽ കുറേ പിസ്റ്റൺ ഉണ്ട് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് അറ്റത്തുള്ള പിസ്റ്റൺ ഒരു പ്ലേറ്റ് വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്ലേറ്റ് കാണാം ഇവിടെ അത് കാണാം ഇനി പ്ലേറ്റ് നോക്കൂ പ്ലേറ്റ് ഒരു ആംഗിൾ θ വെച്ചാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഇത് അർത്ഥമാക്കുന്നത് നമ്മൾക്ക് പമ്പ് കാര്യമെടുക്കാം പമ്പ് തിരിക്കുന്നതിന് വേണ്ടി ഒരു പ്രാഥമികമായ സ്രോതസ്സ് ഉണ്ട് ഇത് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ഡിസ്ക് തിരിയുകയാണ് ഇവിടെ അത് തള്ളുകയാണ് ഇവിടെ അത് പിസ്റ്റൺ വലിക്കുകയാണ് അല്ലേ അതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ദ്രാവകം റിസർവോയറിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ഒപ്പം ഇവിടെ ദ്രാവകം ഔട്ട്ലെറ്റിൽ പോവുകയാണ് അതിനാൽ ആംഗിൾ കാരണം ദ്രാവകത്തെ ഇവിടെ വലിക്കുന്നു ഒപ്പം അത് ഔട്ട്ലെറ്റിൽ പോകുന്നു ഇതിനെയാണ് സ്വാശ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒപ്പം അത് മർദ്ദം ഉള്ള ദ്രാവകത്തെ ഔട്ട്ലെറ്റിൽ എത്തിക്കുന്നു നേരെമറിച്ച് മർദ്ദം ഉള്ള ദ്രാവകത്തെ ഇവിടെ കൊണ്ടുവന്നാൽ ഈ ദിശയിൽ ഇത് തിരിയും അതിനാൽ ഇത് മോട്ടർ പ്രവർത്തനമാണ് ഇങ്ങനെയാണ് പിസ്റ്റൺ പമ്പ് നീങ്ങുന്നത് ഒപ്പം സ്വാഭാവികമായി ഫ്ളോ നിരക്ക് നിശ്ചയിക്കുന്നത് പിസ്റ്റൺ എണ്ണമാണ് അതിനാൽ ഒരു പ്രാവശ്യം തിരിയുമ്പോൾ ഓരോ പിസ്റ്റൺ അതിൻറെ വ്യാപ്തിക്ക് അനുസരിച്ച് ദ്രാവകം അയക്കും അതുകൊണ്ട് ഓരോ സെക്കൻഡിലും തിരിയുന്നതിന് എണ്ണം X ആണ് അതിനാൽ X ഗുണം വ്യാപി ആയിരിക്കും അയക്കുന്ന മർദ്ദം ഇത് ഉപയോഗിച്ച് നമ്മൾക്ക് അയയ്ക്കാം വോളിയം ഫ്ളോ നിരക്ക് കണക്കുകൂട്ടാം നമ്മളൊന്നും കണക്ക് കൂട്ടുന്നില്ല നമ്മളുടെ ഉദ്ദേശം പ്രവർത്തനം മനസ്സിലാക്കുക എന്നതാണ് നേരെമറിച്ച് ഗിയർ പമ്പ് നോക്കാം ഗിയർ പമ്പിൽ മെഷ്ഡ് ഗിയർ ഉണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് വിചാരിക്കാം ഗിയർ തിരിയുകയാണ് അങ്ങനെ ഗിയർ തിരിയുമ്പോൾ ഈ പ്രദേശത്ത് ഇവിടെ പല്ലുകൾ ഇങ്ങനെയാണ് നീങ്ങുന്നത് ഒപ്പം ഈ പല്ലുകൾ ഇങ്ങനെയാണ് നീങ്ങുന്നത് അപ്പോൾ ദ്രാവകത്തെ സങ്കോചിപിക്കുന്നു ഒപ്പം കൂടിയ മർദ്ദം ഉള്ള ഒരു പ്രദേശം ഉണ്ടാക്കി നേരെമറിച്ച് ഇവിടെ മെഷ്ഡ് പല്ലുകൾ ശരിക്കുമുള്ള ചിത്രം ഇങ്ങനെയല്ല മെഷ്ഡ് പല്ലുകൾ കുറച്ചും കൂടെ അടുത്ത് ആയിരിക്കണം അപ്പോൾ പല്ലുകൾ ഇങ്ങനെയാണ് പോകുന്നത് ഒരു സ്ഥലത്ത് അത് തുറക്കപ്പെടുന്നു ഇവിടെ അടയ്ക്കുന്നു ഇതേപോലെ അതിനാൽ ഒരു സ്ഥലത്ത് അടയ്ക്കുന്നു അതിനാൽ മർദ്ദം ഉണ്ടാക്കാനുള്ള പ്രവണത ഉണ്ടാക്കുന്നു മറ്റേ പ്ലേറ്റിൽ അവ തുറക്കുന്നു അതിനാൽ തുറക്കുമ്പോൾ ഇവിടെ ഒരു കുറഞ്ഞ മർദ്ദം ഉള്ള പ്രദേശം ഉണ്ടാകുന്നു അതിനാൽ തീർച്ചയായും കുറഞ്ഞ ന്യൂനം ഉള്ള പ്രദേശം ദ്രാവകത്തെ ഇൻലെറ്റിൽ നിന്നും വലിച്ചെടുക്കും ഒപ്പം കൂടിയ മർദ്ദം ഉള്ള പ്രദേശം ദ്രാവകത്തെ ഔട്ട്ലെറ്റിൽ എത്തിക്കും ഇങ്ങനെയാണ് ഗിയർ പമ്പ് പ്രവർത്തിക്കുന്നത് നേരെമറിച്ച് മോട്ടോർ കാര്യത്തിൽ ഇവിടെ മർദ്ദം കൊടുക്കാൻ എന്ത് സംഭവിക്കും എന്നുവച്ചാൽ ഇത് ഈ ദിശയിൽ തിരിയും അതിനാൽ ഇത് മറ്റേ ദിശയിൽ തിരിയും ഇവിടെ ഫോഴ്സ് അനുഭവിക്കപെടും എന്നിട്ട് അത് മറ്റേ ദിശയിൽ തുറക്കും എന്നിട്ട് പുറത്തുപോകും ഇതാണ് ഹൈഡ്രോളിക് ഉള്ള രണ്ട് ആക്സിയൽ പിസ്റ്റൺ പമ്പ് റൊട്ടേഷണൽ സ്പീഡ് ഒപ്പം ഫ്ലൂയിഡിക് നിരക്ക് വേണം ആനുപാതികം എന്ന് ഉദ്ദേശിക്കുന്നത് ആക്സിയൽ പിസ്റ്റൺ പമ്പ് അല്ലെങ്കിൽ ഗിയർ പമ്പ് ഒരു പ്രത്യേക നിരക്കിൽ തിരിയുമ്പോൾ മർദ്ദം കണക്കിലെടുക്കാതെ ഒരു നിശ്ചിത ദ്രാവക വോളിയം ഓരോ സെക്കൻഡിലും അയച്ചു കൊടുക്കപ്പെടും അതിനാൽ ഫ്ളോ നിരക്കിന് നേർ അനുപാതം ആയിട്ടായിരിക്കും ഷാഫ്റ്റ് റൊട്ടേഷണൽ നിരക്ക് മാറുന്നത് ഇതാണ് മൂന്നാമത്തെ പമ്പ് ഇതിനെ വേൻ പമ്പ് എന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഇതാണ് പുറംഭാഗത്തെ കേസിംഗ് ഈ പോർട്ടിൽ കൂടെയാണ് ദ്രാവകം വെളിയിൽ പോകുന്നത് ഒപ്പം ഇതിൽ കൂടെയാണ് ദ്രാവകം വലിച്ചെടുക്കുന്നത് ഇതാണ് പോർട്ട് അതിനാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതാണ് വേൻ ഇതാണ് വേൻ ഇവ സ്പ്രിംഗ് ഉള്ളതാണ് കേസിംഗ് എതിരെ അമർത്തും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും ഇത് നീങ്ങുകയാണ് വേൻ എപ്പോഴും കേസിംഗ് എതിരേ അമർത്തും ശരിക്കും ഇത് ശ്രമിക്കുന്നത് കേസിംഗ് കൂടെ ദ്രാവകം കൊണ്ടുപോകാനാണ് അതിനാൽ ഇത്രയും ദ്രാവകം തള്ളുന്നു അതിനാൽ ഇത് ദ്രാവകത്തെ വലിക്കും എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെവച്ച് സങ്കോചിക്കുന്നു ഇവിടെവെച്ച് അയച്ചു കൊടുക്കുന്നു അതിനാലാണ് ഇവിടെ നിന്നും പുറത്തു പോയി ഇവിടെ വന്ന് ശേഖരിക്കുന്നത് സമാനമായി ഇവിടെ വന്ന് ശേഖരിച്ച് ഒപ്പം ഇവിടുന്ന് പുറത്തുപോകും അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ ശേഖരിക്കാം ഔട്ട്ലെറ്റ് എല്ലാം ഒരുമിച്ച് ബന്ധിപ്പിക്കാം എന്നിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കാം സമാനമായി ഒരു ഇൻലെറ്റ് ഉണ്ടാക്കാം ഒരു ഇൻലെറ്റ് ഉണ്ട് അതിനാൽ ദ്രാവകം ഈ വഴി പോയി ഒപ്പം ഇവിടന്ന് അത് ഇനി വഴി പോകും അവസാനം ഔട്ട്ലെറ്റിൽ എത്തും ഇവിടെയാണ് ഇൻലെറ്റ് ഇങ്ങനെയാണ് വളരെ ലളിതമായി പറഞ്ഞാൽ വേൻ പമ്പ് പ്രവർത്തിക്കുന്നത്